ഇത് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം DC സർക്യൂട്ടുകൾക്കായി നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നാൽ അതേ സമയം AC സർക്യൂട്ടുകളിൽ എത്തുമ്പോൾ ഉദാഹരണങ്ങളുടെ സമയ എണ്ണം കുറയ്ക്കേണ്ടതാണ് കാരണം അതിൽ സമയ സങ്കീർണ്ണ സംഖ്യ ഉൾപ്പെടും അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സമയം ആവിഷ്കരിക്കുന്നതിനാൽ കൂടുതൽ സമയമെടുക്കും പക്ഷേ DC സർക്യൂട്ടിനായുള്ള അടിസ്ഥാന ആശയം നിങ്ങൾ പഠിക്കുന്ന നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഏതൊക്കെയാണെങ്കിലും അത് സമാനമാണ് നിങ്ങളുടെ പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിന് പുറമെ നിങ്ങളുടെ AC സർക്യൂട്ടുകൾക്കായി മറ്റൊരു പ്രശ്നത്തിലേക്ക് വരിക അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ മെഷ് വിശകലനം ഉപയോഗിച്ച് നിങ്ങൾ i1 i2 എന്നിവ നിർണ്ണയിക്കണം ഇതാണ് കണക്ക് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു 51 50 വോൾട്ട് ഉറവിടവും ഒരു 10 വോൾട്ട് ഉറവിടവുമുണ്ട് ഒരു 10 വോൾട്ട് ഉറവിടവും 50 വോൾട്ട് ഉറവിടവുമുണ്ട് നിങ്ങൾക്ക് i1 i2 എന്നിവയുണ്ട് ഇത് ഒരു ആശ്രിത വോൾട്ടേജ് ഉറവിടമാണ് ഇവിടെ ഇത് 30 i1 ആണ് ഇവിടെ ഇത് നിങ്ങളുടെ i2 ആണ് നിങ്ങൾ i1 i2 എന്നിവയ്ക്കായി പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഇവയ്ക്കായി നിങ്ങളുടെ കെവിഎൽ സമവാക്യങ്ങൾ മുമ്പത്തെപ്പോലെ തന്നെ പിന്നീട് എഴുതുക അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഇതുപോലെ നീങ്ങുന്നുവെങ്കിൽ ഇത് മെഷ് 1 ഉം ഇത് മെഷ് 2 ഉം ആണ് നിങ്ങൾ ഇതുപോലെ എളുപ്പത്തിൽ നീങ്ങിയാൽ നിങ്ങളുടെ KCL KVL സമവാക്യങ്ങൾ എഴുതാം ഉദാഹരണത്തിന് മെഷ് 1 ഇതുപോലെയാണ് ഇതുപോലെ ഘടികാരദിശയിൽ നീങ്ങിയാൽ അത് ആദ്യം ആയിരിക്കും 50 പിന്നെ 10 i1 20 i1 I1 ദിശയിലേക്ക് നീങ്ങുന്നു ഇത് നിങ്ങളുടെ i2 ആണ് അതിനാൽ ഈ ദിശയുടെ ഫലമായി i1 i2 അതിനാൽ 10 i1 i2 ഈ ലൂപ്പിനെ അഭിമുഖീകരിക്കുകയും നീക്കുകയും ചെയ്യുന്നു ടെർമിനൽ അതിനാൽ 30 i1 0 ഇത് നിങ്ങളുടെ ഒരു സമവാക്യമായിരിക്കും പിന്നീട് ഇത് നൽകിയിട്ടുണ്ടെങ്കിലും ഇത് ഒരു സമവാക്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ KVL മെഷ് 2 ൽ പ്രയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ 5 Ω റെസിസ്റ്ററിൽ നിന്ന് ആരംഭിക്കുന്നു ഇത് 5 i2 ആണ് തുടർന്ന് 10 വോൾട്ട് ടെർമിനൽ 10 നേരിടുന്നു ഇവിടെയും നിങ്ങൾ ഇതുപോലെ നീങ്ങിയാൽ 30 i1 വരുന്നു അതിനാൽ 30 i1 ഈ ദിശയിലേക്ക് നീങ്ങുമ്പോൾ ഇത് i2 ആണ് ഇവിടെ i1 ഉണ്ട് മുകളിലേക്കുള്ള ദിശയിൽ i2 i1 അതിനാൽ 10 i2 i1 0 അത്തരം സമവാക്യങ്ങൾ എഴുതുമ്പോ ഇതു ൽ ആയിരിക്കും അത്തരം സമവാക്യങ്ങൾ എഴുതുമ്പോൾ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല അതിനാൽ നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങൾ ലഭിക്കും അതിനനുസരിച്ച് i1 i2 എന്നിവയ്ക്കായി നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് നിങ്ങൾ മെഷ് 1 നായി ഇതിലേക്ക് പോയാൽ ഇതാണ് സമവാക്യം ഒടുവിൽ ഇത് വരുന്നത് i1 i2 5 മെഷ് 2 ന് ഇത് നിങ്ങളുടെ 4 i1 3 i2 ഇത് മെഷ് 1 i1 i2 5 എന്നിവയാണ് ഇത് നിങ്ങളുടെ മെഷ് 2 നുള്ളതാണ് അത് നിങ്ങളുടെ 4 i1 3 i2 2 നിങ്ങൾ ഇത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് i1 137 ആമ്പിയർ ലഭിക്കും i2 227 ആമ്പിയർ ഉം അടുത്തത് ചിത്രം 3 27 ന്റെ സർക്യൂട്ടിലെ വൈദ്യുതി 4 Ω റെസിസ്റ്റർ നിർണ്ണയിക്കുന്നു അതിനാൽ വിതരണം ചെയ്ത വൈദ്യുതി എന്താണ് 30 വോൾട്ട് സോഴ്സ് ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഒരു ആശ്രിത വോൾട്ടേജ് സോഴ്സ് 10 v1 ഉണ്ട് ഈ v1 യഥാർത്ഥത്തിൽ വോൾട്ടേജാണ് നിങ്ങൾ സർക്യൂട്ട് വരയ്ക്കുമ്പോഴെല്ലാം ഒരു കാര്യം നോക്കാം മുകളിലേക്കുള്ള ആരോ സൈൻ കാണിക്കുന്നത് ഇതുപോലുള്ള ആരോ സൈൻ എന്നും ആരോ സൈൻ എല്ലായ്പ്പോഴും എന്നും അടയാളമില്ലാത്തതു ഇത് അർത്ഥമാക്കുന്നു ഈ രീതിയിൽ നിങ്ങൾ അനുമാനിക്കണം ഇവിടെ ആരോ സൈൻ ഉണ്ട് ഇതു നിങ്ങൾ ആയിട്ട് എടുക്കുക ഇതു ആയിട്ടും അത് പരാമർശിച്ചിട്ടില്ലെങ്കിലും ആരോ സൈൻ ഇവിടെ ഉണ്ടെന്നും ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇത് ആണെന്നും അർത്ഥമാക്കുന്നു ഇതാണ് ഈ വോൾട്ട് 10 v 1 എന്നതിനർത്ഥം ഈ v 1 യഥാർത്ഥത്തിൽ ഇതാണ് വോൾട്ടേജ് ഇതാണ് v 1 ഇതിനെ ആശ്രയിച്ചുള്ള വോൾട്ടേജ് ഉറവിടത്തിന് 10 v 1 പോലെയുള്ള ഒന്ന് നൽകിയിരിക്കുന്നു അതിനാൽ അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് v1 ന്റെ അടിസ്ഥാനത്തിൽ i1 ന്റെ എക്സ്പ്രഷൻ കണ്ടെത്തുക എന്നതാണ് എങ്ങനെ കണ്ടെത്താമെന്ന് നേരത്തെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആദ്യം KVL ഇതുപോലെ എടുക്കുക എന്നതാണ് ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് കാണിച്ചിരിക്കുന്ന രീതിയിൽ ഇതുപോലെയല്ല ഇത് ഇവിടെ കാണിച്ചു പക്ഷേ ഇതുപോലെ പോകുക ഈ സാഹചര്യത്തിൽ ഈ i1 എന്ത് സംഭവിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത് ഇവിടെ ഇടുകയാണെങ്കിൽ v 1 ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 5 i 1 എഴുതുകയും ഈ ടെർമിനൽ ഈ പോയിന്റ് v 1 എന്ന് അടയാളപ്പെടുത്തുകയും ഏറ്റുമുട്ടൽ ടെർമിനൽ ഇവിടെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ 30 0 അതായത് i1 30 v1 5 ആയിരിക്കും കാരണം v1 ന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ i1 നേടേണ്ടതുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങളുടെ v1 ഇത് i1 ആക്കാം അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു വഴി v1 30 5 i1 എഴുതുന്നു ഈ കാര്യത്തിന് ഇത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു 30 5 i1 അതാണ് നിങ്ങളുടെ v1 അതിനാൽ v1 നിങ്ങൾ i1 അനുസരിച്ച് നേടേണ്ടതുണ്ട് കാരണം i1 i2 എന്നിവയ്ക്കായി പരിഹരിക്കേണ്ടതുണ്ട് ഇവയിൽ നിന്ന് v1 നിങ്ങളുടെ 5 i1 v1 30 0 മാത്രമാണിതെന്ന് കെവിഎൽ ഇവിടെ പ്രയോഗിച്ചുവെന്ന് വ്യക്തമാണ് ഇത് ആവശ്യമാണ് കാരണം സമവാക്യങ്ങളിലേക്ക് പോകുന്നതിനുമുമ്പ് ആദ്യം ഇവയെല്ലാം വ്യക്തമാക്കാൻ ശ്രമിക്കുക നിങ്ങൾ സ്വയം വ്യക്തമാക്കുന്നത് അത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും അതിനാലാണ് ആദ്യം 5 i1 v1 30 എഴുതുന്നത് അതിനാൽ v1 30 5 1 ഇപ്പോൾ നിങ്ങൾ KVL എന്ന് വിളിക്കുന്നതിനെ മെഷ് ഒന്നിൽ പ്രയോഗിക്കുന്നു നിങ്ങൾ ഇവിടെ കെവിഎൽ എഴുതുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ ഇത് എങ്ങനെ എഴുതുന്നുവെന്ന് നിങ്ങൾ ഇവിടെ കെവിഎൽ എഴുതുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ 5 i1 ആണ് ഇത് 5 i1 എന്ന് എഴുതിയിരിക്കുന്നു ഇത് 10 i1 ഉം 5 ഉം 10 ഉം സീരീസിലാണ് അടിസ്ഥാനപരമായി ഇത് 15 i1 ആണ് അതിനാൽ 10 i1 ഈ കറന്റ് i1 ഈ ദിശയും i2 ഈ ദിശയിലേക്ക് പോകുന്നു ഇത് 1 i1 i2 ആണ് പിന്നെ 10 v1 പിന്നെ ഇവിടെ 30 0 ഈ മെഷിൽ നിങ്ങൾ KVL പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടേതായിരിക്കും നിങ്ങൾ KVL എന്ന് വിളിക്കുന്നതിനെ മെഷ് 2 ൽ പ്രയോഗിച്ചാൽ സമാനമായ രീതിയിൽ നീക്കുവാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ഇവിടെ നിന്ന് ആരംഭിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ആരംഭിച്ച് ഇതുപോലെ നീങ്ങുന്നുവെങ്കിൽ അത് 4 i2 ആണ് നിങ്ങൾക്ക് ഇതുപോലുള്ള 10 v1 ലഭിക്കും പ്രത്യേകിച്ചും i1 ന്റെ അടിസ്ഥാനത്തിൽ മുകളിലേക്ക് പോകുമ്പോൾ 1 ഇത് നിങ്ങളുടെ i1 ആണ് കാരണം കറന്റ് i1 ഇതുപോലെ നീങ്ങുന്നു അതിനാൽ i2 i1 ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല 0 ഇത് നിങ്ങളുടെ രണ്ടാമത്തെ സമവാക്യമാണ് മെഷ് 1 ന് ഈ സമവാക്യം ലഭിക്കും ഇത് ലളിതവൽക്കരണത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന സമവാക്യമാണ് ഇത് സമവാക്യം 2 ആണ് ഇവിടെ നിങ്ങൾ v1 30 5 i1 എന്നതിന് പകരമായി പകരം വയ്ക്കണം അതായത് i1 i2 എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സമവാക്യം ലഭിക്കും അതുപോലെ നിങ്ങൾ മെഷ് 2 നായി പോയാൽ ഇത് നിങ്ങൾ പ്രയോഗിക്കുന്ന മെഷ് 2 കെവിഎൽ കൂടിയാണ് ഒടുവിൽ ഇവിടെയും നിങ്ങൾ v1 30 51 ഇടുക അതിനാൽ മറ്റൊരു സമവാക്യം നിങ്ങൾക്ക് 51 i1 52 300 ലഭിക്കും 3 4 എന്നീ സമവാക്യങ്ങൾ പരിഹരിക്കുക നിങ്ങൾ ഇത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് i1 4 8 4 ആമ്പിയർ ലഭിക്കും i2 10 64 ആമ്പിയർ വൈദ്യുതി ഇല്ലാതാകുന്നു 4 Ω റെസിസ്റ്റർ 10 64 ചതുരശ്ര 4 അതിനാൽ 453 25 വാട്ട് വൈദ്യുതി വിതരണം 30 വോൾട്ട് സോഴ്സ് ഇത് 30 4 84 അതിനാൽ 145 2 വാട്ട് കാരണം അതിൽ നിന്ന് i1 ഉറവിടം i1 കറന്റ് നൽകുന്നു ഇത് 30 4 പോയിന്റും അടിസ്ഥാനപരമായി 30 വോൾട്ട് i1 ഉം ആണ് i1 എന്നത് 4 84 ആണ് അതിനാൽ അവ 45 2 വാട്ട് അടുത്തത് ഈ ലളിതമായ ഉദാഹരണം എടുക്കുക ചിത്രം 3 2 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ i2 നിർണ്ണയിക്കുക ഈ സർക്യൂട്ട് നിങ്ങളുടെ i2 ഈ കറന്റ് യഥാർത്ഥത്തിൽ ഈ നിലവിലെ 5 ആമ്പിയർ ആണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇത് അവിടെയുള്ള ദിശയാണ് അതായത് i1 യഥാർത്ഥത്തിൽ 5 ആമ്പിയർ കാരണം ഇവ i1 പോലെ നീങ്ങുമ്പോൾ i1 ഇതുപോലെ പോകുന്നു ഈ i1 ഇത് ഘടികാരദിശയിൽ പോകുന്നു ഇത് എതിർദിശയിൽ വരുന്നു അതിനാൽ i1 5 അതിനുശേഷം നിങ്ങൾ കെവിഎൽ എന്ന് വിളിക്കുന്നവ ഈ മെഷിൽ പ്രയോഗിക്കുക അതിനാൽ നിങ്ങൾ ഇതുപോലെ നീങ്ങുന്നുവെങ്കിൽ ഇതുപോലെയാകും 100 ഇപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല ഇപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി 100 10 ഇതാണ് ഈ ദിശയിലുള്ള നിലവിലെ i2 ഇതാണ് നിലവിലെ i2 I1 ഈ ദിശയിലാണ് അതിനാൽ ഇത് 10 i2 i1 5 i2 ആയിരിക്കും കാരണം ഈ 5 Ω പ്രതിരോധം ഈ 5 i2 0 ആണ് എന്നാൽ i1 5 ആമ്പിയർ നിങ്ങൾ i i1 5 എന്നതിന് പകരമായി നൽകിയാൽ അത് 100 10 i2 5 52 0 അതിൽ നിന്ന് നിങ്ങൾ i2 കണക്കുകൂട്ടണം അത് നിങ്ങളുടെ കണക്കുകൂട്ടലുകളാണ് ഇത് ഇവിടെ നൽകിയിരിക്കുന്നു ഇത് ഒരു ലളിതമായ കാര്യമാണ് അതിനാൽ i2 യഥാർത്ഥത്തിൽ 103 ആമ്പിയർ ഇതാണ് ഉത്തരം സമാനമായി ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ i1 i2 i3 എന്നിവ നിർണ്ണയിക്കുക ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആ പ്രശ്നം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ i1 i2 i3 എന്നിവ കണ്ടെത്തണം നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് മെഷ് ആണ് ഇത് ഒരു മെഷ് ആണ് രണ്ട് മെഷിന് ഇടയിൽ 1 കറന്റ് സോഴ്സ് ഉണ്ട് അതനുസരിച്ച് ഇത് ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുന്നത് നിങ്ങൾ കാണും കാരണം ഇത് ഒരു മെഷ് ആണ് കറന്റ് സോഴ്സിനിടയിൽ ഈ രണ്ട് മെഷുകളും ഉണ്ട് ഇത് ഒരു സൂപ്പർ മെഷ് ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഈ കറന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അത് i2 ഉം ഈ ദിശ i1 ഉം 5 ആമ്പിയർ മുകളിലേക്കുള്ള ദിശയും കാണിക്കുന്നു അതിനാൽ ഇത് ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുന്നുവെന്ന് കാണും സ്ഥിരമായ ചില സമവാക്യം വരും ഒരാൾക്ക് എങ്ങനെ പരിശോധിക്കാൻ കഴിയും അത് ഒരു സൂപ്പർ മെഷ് ആകുന്നതിന് മുമ്പ് നോക്കുക അതിനാൽ ഒരു സ്ഥിരമായ സമവാക്യം ഉണ്ടാകും KVLല്ലിൽ നിന്നും മുമ്പ് ഇത് ഒരു നോഡാണ് മറ്റൊരു നോഡ് നോഡ് എ ഉണ്ട് ഈ i2 കറന്റ് വരുന്നു ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ i2 ആണ് കാരണം ഇത് ഘടികാരദിശയിൽ നീങ്ങുന്നു ഇത് i2 ആണ് ഇത് നിങ്ങളുടെ 5 ആമ്പിയർ കറന്റും മുകളിലേക്ക് നീങ്ങുന്നതുമാണ് യഥാർത്ഥത്തിൽ i1 ഇതുപോലെയാണ് അതിനാൽ ഇത് i1 ആണ് നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ i2 കറന്റ് നോഡ് എയിൽ പ്രവേശിക്കുന്നു 5 ആമ്പിയറും i 1 ഉം പോകുന്നു അതിനാൽ i2 യഥാർത്ഥത്തിൽ 5 i1 അല്ലെങ്കിൽ i2 i1 5 ആമ്പിയർ നോഡ് a യിൽ നിങ്ങളുടെ KCL എന്ന് വിളിക്കുന്നവ എളുപ്പത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒന്നാണിത് മറ്റൊരു കാര്യം ഈ i2 ഈ വഴി നീങ്ങുന്നു ഈ i1 ഈ രീതിയിൽ നീങ്ങുന്നു ഇത് നിങ്ങളുടെ i1 ആണ് ഈ 5 ആമ്പിയർ ദിശ മുകളിലേക്കാണ് അതിനാൽ മുകളിലേക്കുള്ള ദിശ കറന്റ് യഥാർത്ഥത്തിൽ i2 i1 ഈ i2 ഉം - a i1 ഉം ആണ് ഇത് മുകളിലേക്ക് 5 ആമ്പിയർ ആണ് അത് നേരിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ 5 ആമ്പിയർ എന്ന് എഴുതാം അതിനാൽ ഈ സമവാക്യം പിന്നീട് കാണും ഇത് ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ഇതുപോലെയുള്ള കെവിഎൽ പ്രയോഗിക്കണം കാരണം ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാനും തുടർന്ന് ഒരു ഡാഷ് ലൈൻ ഉണ്ടാക്കാനും അവിടെ നിങ്ങൾക്ക് അത് ചെയ്യാനും കഴിയും അതിനാൽ ഇത് ഒരു സൂപ്പർ മെഷ് ആണ് നിങ്ങൾക്ക് സമവാക്യം എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നവ എഴുതുക ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയുന്ന എന്റെ പറയലിൽ നിന്ന് ആയിരിക്കും ഇത് ഇതുപോലെയാകും ഇത് 2 i1 i3 ആയിരിക്കും കാരണം ഇത് ഈ ദിശയിലുള്ള നിങ്ങളുടെ ഫലമാണ് ഈ ദിശയിൽ ഫലമായി ഇത് നിങ്ങളുടെ i1 i3 ആണ് ഇവിടെ ഇത് നിങ്ങളുടെ i2 i3 ആയിരിക്കും അതിനാൽ 2 i1 i3 4 i2 i3 1 നിങ്ങൾ ഇതുപോലെയാണെങ്കിൽ നിങ്ങളുടെ i1 1 0 ആയിരിക്കും അങ്ങനെ ഈ രീതിയിൽ മറ്റേതിന് സമാനമായി നിങ്ങൾക്ക് മെഷ് 3 പ്രയോഗിക്കാം നിങ്ങൾക്ക് KVL പ്രയോഗിക്കാനും കഴിയും നിങ്ങൾ ഈ KVL പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂപ്പർ മെഷിലാണ് ഇത് നിങ്ങൾക്കായി എഴുതിയ സമവാക്യമാണ് മെഷ് 3 നായി നിങ്ങൾ വീണ്ടും KVL പ്രയോഗിക്കുന്നു ഇത് നിങ്ങളുടെ സമവാക്യമാണ് ഇത് മെഷ് സൂപ്പർ മെഷ് 1 സമവാക്യം 1 മെഷ് 3 സമവാക്യത്തിന് 2 അതിനാൽ നോഡ് എ യിൽ കെസിഎൽ പ്രയോഗിക്കുക i2 i1 5 ഇത് സമവാക്യം 3 ആണെന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1 2 3 സമവാക്യങ്ങൾ പരിഹരിക്കുക നിങ്ങളുടെ i1 10018 ആമ്പിയർ i2 1018 ആമ്പിയർ i3 8054 ആമ്പിയർ എന്നിവ ലഭിക്കും ഇതാണ് ഉത്തരം നിങ്ങൾക്ക് ഒരു വ്യായാമം നൽകുന്നു അതിനാൽ ഈ വൈദ്യുതധാരയും വോൾട്ടേജ് സോഴ്സും ഉപയോഗിച്ച് നിങ്ങൾ വിതരണം ചെയ്തതോ ആഗിരണം ചെയ്തതോ ആയ ഊർജ്ജം എന്താണെന്നും നിങ്ങൾ കണ്ടെത്തും ഇത് ഇവിടെ ചെയ്തിട്ടില്ല പക്ഷേ ഇത് നിങ്ങൾക്കുള്ള ഒരു വ്യായാമമാണ് നിങ്ങൾ അത് ചെയ്യുക അടുത്തത് നോഡൽ ഉം മെഷ് വിശകലനവും തമ്മിൽ താരതമ്യം ചെയാം അതിനാൽ നിങ്ങൾ നോഡൽ വിശകലനത്തിനായി എവിടെ പോകും മെഷ് വിശകലന രൂപത്തിനായി എവിടെ പോകും നോഡൽ മെഷ് വിശകലനം എന്നിവ വ്യവസ്ഥാപിത വിശകലനത്തിനും സങ്കീർണ്ണമായ സർക്യൂട്ടിനും നൽകുന്നതാണ് ഇത് ഉദാഹരണത്തിന് നിരവധി സീരീസ് കണക്റ്റുചെയ്ത ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന നെറ്റ്വർക്കിൽ സൂപ്പർ മെഷുകളും വോൾട്ടേജ് ഉറവിടങ്ങളും മെഷ് വിശകലനത്തിന് അനുയോജ്യമാണ് സമാനമായി സമാന്തരമായി ബന്ധിപ്പിച്ച ഘടകങ്ങൾ നിലവിലെ ഉറവിടങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ നോഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് നോഡൽ വിശകലനത്തിന് അനുയോജ്യമാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമവാക്യം എവിടെയാണെന്ന് കാണണം എന്നതാണ് യഥാർത്ഥത്തിൽ ചോദ്യം നോഡൽ വിശകലനത്തിനായി ഏറ്റവും കുറഞ്ഞ സമവാക്യം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഏറ്റവും കുറഞ്ഞ സമവാക്യത്തിന്റെ അർത്ഥം നിങ്ങളുടെ മത്സര സമയം കുറവാണെങ്കിൽ എന്തിനാണ് നോഡൽ വിശകലനം അല്ലെങ്കിൽ മെഷ് വിശകലനം ഏറ്റവും കുറഞ്ഞ സമവാക്യം ലഭിക്കാൻ അനുയോജ്യമായത് ഏതാണെന്ന് കാണേണ്ടതുണ്ട് നോഡൽ അല്ലെങ്കിൽ മെഷ് വിശകലനം ചോദിക്കുന്നതിനുള്ള ആശയം അതാണ് വോൾട്ടേജ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നോഡൽ വിശകലനത്തിനായി പോകാം വൈദ്യുത പ്രവാഹങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ മെഷ് വിശകലനത്തിനായി പോകുന്നതാണ് നല്ലത് എന്നാൽ രണ്ട് കേസുകളും നിങ്ങൾക്ക് നോഡൽ വിശകലനം ആവശ്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് സമവാക്യങ്ങൾ ഉള്ളിടത്ത് ആവശ്യമുണ്ടോ എന്ന് ദയവായി കാണുക അതിനാൽ നോഡലും നിങ്ങൾ മെഷ് വിശകലനം എന്ന് വിളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത് ചില വ്യായാമങ്ങൾ ഇപ്പോൾ നൽകുന്നു കുറഞ്ഞത് 10 പ്രശ്നങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടിവരും അതിനാൽ ഇവിടെ നിങ്ങൾ നോഡൽ രീതി ഉപയോഗിച്ച് v 1 v 2 എന്നിവ കണ്ടെത്തണം നിങ്ങൾ കാണുന്ന എല്ലായിടത്തും ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നു v1 2 വോൾട്ട് v2 14 വോൾട്ട് അതുപോലെ നിങ്ങൾ ഉദാഹരണം 2 എടുക്കുക നോഡ് വോൾട്ടേജ് രീതി ഉപയോഗിച്ച് ചിത്രം 32 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ v1 v2 എന്നിവ നിർണ്ണയിക്കുക അധ്യായം 3 32 ചിത്രം 3 അതിനാൽ ഇത് പരിഹരിക്കുന്ന മറ്റൊന്നാണ് മറ്റൊന്ന് നോഡൽ വിശകലനം ഉപയോഗിച്ച് ചിത്രം 3 3 നിങ്ങളുടെ 33 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടുകളിൽ വിതരണം ചെയ്ത പവർ ഓരോ സോഴ്സും കണ്ടെത്തുക ഇതാണ് ആ ചിത്രം അതിനാൽ വിതരണം ചെയ്ത പവർ സർക്യൂട്ടിന്റെ ഓരോ സോഴ്സും നിങ്ങൾ കണ്ടെത്തണം അടുത്തതായി ഈ ഉത്തരങ്ങൾക്ക് 150 വാട്ട് നൽകുന്നു 80 വാട്ട് യഥാക്രമം 144 വാട്ട് ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നു അതിനാൽ ചിത്രം 34 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ v1 v2 എന്നിവ നിർണ്ണയിക്കുക അതിനാൽ ഇവിടെയും v 1 v 2 എന്നിവ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാ ഉത്തരങ്ങളും ശരിയാണെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ നിർദ്ദേശിക്കുക ഇവയിൽ എന്തെങ്കിലും പിശക് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ദയവായി അറിയിക്കുന്നതിലൂടെ ഉത്തരം ശരിയാക്കാൻ കഴിയും ഉദാഹരണം 5 എന്ന നിലയിൽ നിങ്ങൾ v 1 v 2 v 3 എന്നിവയും ചിത്രം 35 ൽ കാണിച്ചിരിക്കുന്ന ഈ സർക്യൂട്ടും കണ്ടെത്തണം ഇത് ചിത്രം 35 ആണ് നിങ്ങളുടെ v 2 ഇവിടെ കണ്ടെത്തണം v 1 v 2 v3 ഉം v3 v2 ഉം ഇവിടെയുണ്ട് v2 ഇതിനെ മറികടക്കുന്നില്ല ഇത് യഥാർത്ഥത്തിൽ v2 ആണ് ഇവിടെ ഇതിന് v2 നൽകിയിരിക്കുന്നു ഈ പ്രശ്നത്തിനായി നിങ്ങൾ v1 v2 v3 എന്നിവയും കണ്ടെത്തണം ഇവിടെ വ്യത്യസ്തമായ ഒന്ന് പൊതുവായി ഇവിടെ നിങ്ങൾക്ക് അത് കണ്ടെത്താനാകും ഉത്തരങ്ങൾക്ക് v1 നൽകിയിട്ടുണ്ട് എന്നാൽ v2 എന്നത് ഒരു റഫറൻസ് നോഡല്ല 0 സാധ്യതകൾ v2 72 73 വോൾട്ട് ആണ് ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നു ഉദാഹരണം 6 നോഡൽ വിശകലനം ഉപയോഗിക്കുന്നു നിങ്ങൾ സർക്യൂട്ടിന്റെ ix നിർണ്ണയിക്കണം അതിനാൽ ix ഒരു ആശ്രിത വോൾട്ടേജ് സോഴ്സാണ് ഉത്തരം ix 2 31 ആമ്പിയർ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രശ്നം 7 ന് ആ ഉദാഹരണത്തിൽ 7 മെഷ് കറന്റ് ടെക്നിക് ഉപയോഗിച്ച് i കണ്ടെത്തുക യഥാർത്ഥത്തിൽ ഇത് ix ആയിരിക്കണം അതൊരു നോഡൽ വിശകലനമാണ് യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ ix ആയിരിക്കണം ഇവിടെ ഇത് ഒരു തിരുത്തലാണ് ഇത് സഫിക്സ് ആയിരിക്കണം ix ix കണ്ടെത്തുക ആ ചിത്രം 36 ൽ നിങ്ങൾ ix കണ്ടെത്തണം ix ഇത് 2 3 ആയതിനാൽ ഉത്തരം സമാനമായിരിക്കണം അതിനാൽ 2 3 ആമ്പിയർ ഇത് ഒരു തിരുത്തൽ മാത്രമാണ് നിങ്ങളുടെ നോഡൽ വിശകലനവും മെഷ് വിശകലനവും ആവശ്യപ്പെടുന്നു നിങ്ങൾ രണ്ടും ചെയ്യേണ്ടിവരും 8 ഇ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ v1 v2 v3 എന്നിവ നിങ്ങൾ കണ്ടെത്തണം അതിനാൽ നിങ്ങൾക്ക് v1 v2 v3 എല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നു ഒരു ഡിപെൻഡന്റ് ഉം ഇൻഡിപെൻഡന്റ് ഉം ഉണ്ട് ഈ 4 ix എന്നാൽ 10 ആമ്പിയർ വസ്തു ഉണ്ടെന്നും 4 ix ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഉണ്ടെന്നും അർത്ഥമാക്കുന്നു നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട് അതിനാൽ മറ്റൊരു കാര്യം മെഷ് വിശകലനം ഉപയോഗിച്ച് നിങ്ങളുടെ പ്രശ്നം 3 9 നിങ്ങൾ സർക്യൂട്ടിന്റെ ix നിർണ്ണയിക്കണം ആശ്രിത വോൾട്ടേജ് സോഴ്സുമുണ്ട് ഈ കറന്റ് ix ആണ് അതിനാൽ നിങ്ങൾ ഇത് കണ്ടെത്തുക ഉത്തരം ix 5 ആമ്പിയർ നൽകിയിരിക്കുന്നു അവസാനത്തെ പ്രശ്നത്തിന് യഥാർത്ഥത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഡിസി സർക്യൂട്ടിനായി ഈ 10 നൽകുന്നത് എസി സർക്യൂട്ടിന്റെ പ്രശ്നം മാത്രമേ കുറയ്ക്കൂ മെഷ് നിലവിലെ രീതി ഉപയോഗിച്ച് സർക്യൂട്ടിലെ 2 Ω രജിസ്റ്ററിലേക്ക് വിതരണം ചെയ്യുന്ന പവർ നിർണ്ണയിക്കുക അതിനാൽ ഇതാണ് നിങ്ങളുടെ അവസാന പ്രശ്നം 10 നിങ്ങൾ മെഷ് കറന്റ് രീതി ഉപയോഗിക്കണം ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിലെ 2 Ω റെസിസ്റ്ററിലേക്ക് വിതരണം ചെയ്യുന്ന പവർ നിങ്ങൾ നിർണ്ണയിക്കണം അതിനാൽ ഈ കണക്ക് 2 സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സുകൾ 1 ആശ്രിത നിലവിലെ ഉറവിടം ഉണ്ട് ഇവിടെ ഇത് ഒരു ആശ്രിത നിലവിലെ ഉറവിടമാണ് കാരണം ഈ ix ഇവിടെ നിങ്ങൾ ഇവ മാറ്റുന്നു ഇത് 4 ix ആയിരിക്കും ഇത് ഒരു തിരുത്തലാണ് അതിനാൽ ഇതോടെ നിങ്ങളുടെ അധ്യായം അവസാനിക്കും അടുത്തതിലേക്ക് പോകുക വളരെയധികം വിശദാംശങ്ങൾ ഉണ്ടാക്കി നിരവധി ഉദാഹരണങ്ങൾ പരിഹരിച്ചു ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തത് നിങ്ങളുടെ സർക്യൂട്ട് സിദ്ധാന്തമായിരിക്കും അതിനാൽ സർക്യൂട്ട് സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ 3 ാം അധ്യായത്തിലായിരിക്കും KCLല്ലും KVLല്ലും ഉപയോഗിച്ചതും സർക്യൂട്ട് വിശകലനവും കണ്ടിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ കോൺഫിഗറേഷനെ തകർക്കാതെ തന്നെ എന്നാൽ ഈ വിശകലനത്തിന്റെ ഈ സർക്യൂട്ട് ഉപയോക്താവിന്റെ പ്രധാന പോരായ്മയിൽ നിങ്ങളുടെ കെസിഎൽ കെവിഎൽ നോഡൽ മെഷ് വിശകലനത്തിനായി പോകുന്നു നിങ്ങൾക്ക് വളരെ വലിയ സങ്കീർണ്ണ സർക്യൂട്ട് പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ കാലങ്ങളായി ഇത് ഒരു ശ്രമകരമായ കണക്കുകൂട്ടലാണ് അതിനാൽ എഞ്ചിനീയർമാർ ചില സർക്യൂട്ട് സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ അത്തരം സിദ്ധാന്തങ്ങളെ എപ്പോഴെങ്കിലും തെവെനിന്റെ പ്രമേയം എന്നും നോർട്ടന്റെ സിദ്ധാന്തം എന്നും വിളിക്കുന്നു അതിനാൽ ഈ സിദ്ധാന്തങ്ങൾ ലീനിയർ സർക്യൂട്ടിന് ബാധകമാണ് ഈ അധ്യായത്തിൽ ആദ്യം സർക്യൂട്ട് ലീനിയറിറ്റി എന്ന ആശയം ചർച്ചചെയ്യുക കൂടാതെ സൂപ്പർ പൊസിഷൻ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ പരമാവധി പവർ ട്രാൻസ്ഫർ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും അതിനാൽ ഇവിടെ സർക്യൂട്ട് സിദ്ധാന്തം തെവെനിന്റെ പ്രമേയവും നോർട്ടന്റെ പ്രമേയവും പഠിക്കും അതിനുപുറമെ സൂപ്പർ പൊസിഷൻ സിദ്ധാന്തവും പിന്നീട് നിങ്ങളുടെ ഉറവിട പരിവർത്തനവും ഡിസി സർക്യൂട്ടിനായുള്ള നിങ്ങളുടെ പരമാവധി പവർ ട്രാൻസ്ഫർ അവസ്ഥയും പഠിക്കും നിങ്ങൾ ലീനിയറിറ്റി പ്രോപ്പർട്ടിക്ക് പോകുമ്പോഴെല്ലാം കാരണവും ഫലവും തമ്മിലുള്ള ഒരു രേഖീയ ബന്ധത്തെ വിവരിക്കുന്ന ഒരു മൂലകത്തിന്റെ സ്വത്താണിതെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ ഹയർ സെക്കന്ററി ഭൌതികശാസ്ത്രത്തിൽ നിന്ന് പോലും ഇത് നിങ്ങൾക്കറിയാം അത് കാരണവും ഫലവും തമ്മിലുള്ള ഒരു രേഖീയ ബന്ധം വിവരിക്കുന്ന ഒരു മൂലകത്തിന്റെ സ്വത്താണ് എന്നത് അതിനാൽ ലീനിയർ പ്രോപ്പർട്ടി പല സർക്യൂട്ട് ഘടകങ്ങൾക്കും ബാധകമാണെങ്കിലും ഇത് ഡിസി സർക്യൂട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന രജിസ്റ്ററുകളിലേക്ക് പരിമിതപ്പെടുത്തുന്നു അതിനാൽ ലീനിയറിറ്റി പ്രോപ്പർട്ടി നിങ്ങളുടെ സ്കെയിലിംഗും സ്വത്തും ആയ ഹോമോഗെണിറ്റി പ്രോപ്പർട്ടി ടെ സംയോജനമാണ് അതിനാൽ ഒന്ന് ഹോമോഗെണിറ്റി ആൺ മറ്റൊന്ന് അഡിറ്റിവിറ്റി അതിനാൽ ഈ ലീനിയറിറ്റി പ്രോപ്പർട്ടി രണ്ടും കൂടിച്ചേർന്നതാണ് അതിനാൽ ഹോമോഗെണിറ്റി പ്രോപ്പർട്ടി ഇതിന് എസ്സിറ്റേഷൻ എന്ന് വിളിക്കുന്ന ഇൻപുട്ടുകൾ ആവശ്യമാണ് ഇവിടെ നിങ്ങൾ ഇത് അടയാളപ്പെടുത്തുന്നു ഇൻപുട്ട് ആവേശകരമാണെങ്കിൽ അത് സ്ഥിരാങ്കം കൊണ്ട് ഗുണിക്കുകയും ഔട്ട്പുട്ടിനെ ഒരേ സ്ഥിരാങ്കം കൊണ്ട് ഗുണിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് Ω ന്റെ നിയമത്തിൽ നിങ്ങൾ v i R പറയുന്നിടത്ത് നിങ്ങൾ സ്ഥിരമായ k കൊണ്ട് ഗുണിച്ചാൽ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യാം അതിനാൽ KV KR അതിലേക്ക് വരും